നമ്മൾ കാണാൻ പോകുന്നത് ഈ യൂണിറ്റിന്റെ മുഖ്യ വിഷയമായ ADDIE യുടെ ഇൻസ്ട്രക്ഷണൽ സിസ്റ്റം ഡിസൈൻ മോഡലിനെ പറ്റിയാണ് ഒരു കോഴ്സിന്റെ ചിട്ടയായ രൂപകൽപ്പനയുടെ സുപ്രധാന സംഭാവന പഠന നിലവാരം ഉയർത്തുന്നതിന് കാരണമാകുമെന്ന് മുമ്പത്തെ യൂണിറ്റിൽ നാം മനസ്സിലാക്കി നിങ്ങൾ ഒരു കോഴ്സിന്റെ ചിട്ടയായ രൂപകൽപ്പനയിലൂടെ കടന്നുപോകുകയാണെങ്കിൽ പഠന നിലവാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് ഞങ്ങൾ വീണ്ടും പറയുന്നു നിങ്ങൾ ഇത് ഒരിക്കൽ ചെയ്താൽ നിങ്ങൾ കോഴ്സ് വാഗ്ദാനം ചെയ്യുമ്പോഴെല്ലാം ചെറുതായി മാത്രം മാറ്റം വരുത്തേണ്ടതുള്ളൂ അതാണ് നേട്ടം നിങ്ങൾ ഒരു കോഴ്സ് എടുക്കുമ്പോൾ അതെടുത്ത അനുഭവത്തെ അടിസ്ഥാനമാക്കി അടുത്ത തവണ പടിപടിയായി മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ട് വരാം ഉള്ളടക്കമോ സിലബസോ ഗണ്യമായി മാറുമ്പോൾ മാത്രം നിങ്ങൾക്ക് കോഴ്സിന്റെ പൂർണ്ണമായ പുനർരൂപകൽപ്പനയിലൂടെ കടന്നുപോകേണ്ടിവരാം ഈ യൂണിറ്റിൽ നമ്മൾ ഇൻസ്ട്രക്ഷണൽ സിസ്റ്റം ഡിസൈൻ മോഡലുകളുടെ സ്വഭാവവും പ്രത്യേകിച്ച് ADDIE മോഡലിന്റെ സവിശേഷതകളും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്താണ് ഇൻസ്ട്രക്ഷൻ എന്താണ് ഇൻസ്ട്രക്ഷൻ തത്ത്വങ്ങൾ എന്താണ് ഇൻസ്ട്രക്ഷൻ രൂപകൽപ്പന അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ രൂപകൽപ്പന സിദ്ധാന്തം തുടങ്ങിയവയെക്കുറിച്ച് നാം വ്യക്തമായിരിക്കണം പഠനം സുഗമമാക്കുന്ന ലക്ഷ്യബോധമുള്ള പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടം ഇവന്റുകളല്ലാതെ മറ്റൊന്നുമല്ല ഇൻസ്ട്രക്ഷൻ അതിനർത്ഥം നിങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ഒരു കൂട്ടം സംഭവങ്ങളിലൂടെ കടന്നുപോകുന്നു ഇവന്റുകൾ പ്രഭാഷണം മാത്രമായിരിക്കാം അല്ലെങ്കിൽ ഇത് ഒരു ട്യൂട്ടോറിയൽ സെഷനാകാം അല്ലെങ്കിൽ ഇത് ഒരു ഗ്രൂപ്പ് ചർച്ചയാകാം അത്തരം എല്ലാ പരിപാടികളും പഠനത്തെ സുഗമമാക്കുന്നതിന് സംഘടിപ്പിക്കപ്പെടുന്നു ഇൻസ്ട്രക്ഷൻ ചെയ്യാനായി വിശിഷ്ടമായ ഒരു മാർഗ്ഗമോ ഏക മാർഗ്ഗമോ അല്ല ഉള്ളത് ഓരോരുത്തർക്കും അവരവരുടെ യുക്തിയെ അടിസ്ഥാനമാക്കി അല്പം വ്യത്യസ്തമായ ഇൻസ്ട്രക്ഷനുകളുമായി വരാൻ കഴിയും കൂടാതെ ഈ ഇവന്റുകൾ പഠിതാവിന് ബാഹ്യമാകാം അതായത് നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കിയിട്ടുള്ള പേജുകൾ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ടറുടെ പ്രഭാഷണം ആകാം ഉദാഹരണത്തിന് എനിക്ക് വിദ്യാർത്ഥികളോട് മുൻകൂട്ടി വായിച്ച് ക്ലാസിലേക്ക് വരാൻ ആവശ്യപ്പെടാം മെറ്റീരിയൽ ഒരു അച്ചടിച്ച പാഠപുസ്തകത്തിലെ ചില പേജുകളാകാം അല്ലെങ്കിൽ അത് ഇന്റർനെറ്റിൽ ലഭ്യമായ മെറ്റീരിയലാകാം ഇത് ഇൻസ്ട്രക്ടറുടെ പ്രഭാഷണമോ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളോ ആകാം അവയെല്ലാം പഠിതാവിന് ബാഹ്യമാണ് ആന്തരിക മാനസിക സംഭവങ്ങൾ ഉണ്ടാകാം ഇതുപോലെ അധ്യാപകൻ വിദ്യാർത്ഥിയുടെ ശ്രദ്ധ നേടുന്നു അല്ലെങ്കിൽ അവരെക്കൊണ്ട് എന്തെങ്കിലും പരിശീലനം നടത്തുകയോ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പ്രതിഫലിപ്പിക്കുകയോ അല്ലെങ്കിൽ മെറ്റാകോഗ്നിറ്റീവ് പ്രവർത്തനം പോലെ അതായത് ഒരാളുടെ സ്വന്തം പുരോഗതി നിരീക്ഷിക്കുകയോ ചെയ്യിക്കുന്നു ആന്തരിക ഇവന്റുകളും ബാഹ്യ ഇവന്റുകളും ചില ശ്രേണിയിൽ സംയോജിപ്പിച്ച് ഇൻസ്ട്രക്ഷനുകൾ സൃഷ്ടിക്കുന്നു "ഇൻസ്ട്രക്ഷൻ" എന്ന് വിളിക്കുന്ന ബാഹ്യ ഇവന്റുകൾ രൂപകൽപ്പന ചെയ്യുന്നതിന് പഠന സിദ്ധാന്തങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ തത്ത്വങ്ങൾ പ്രയോഗിക്കുന്ന ഇൻസ്ട്രക്ഷണൽ ഡിസൈനർമാർ എന്ന് പേരുള്ള വ്യക്തികളുണ്ട് അതിനാൽ ഇവിടെ ഒരാൾക്ക് ചില കാര്യങ്ങളിൽ പരിചയമുണ്ടായിരിക്കണം ഇൻസ്ട്രക്ഷണൽ ഡിസൈനർ മനഃശ്ശാസ്ത്ര പശ്ചാത്തലത്തിൽ നിന്നോ ഏതെങ്കിലും വിഷയ പശ്ചാത്തലത്തിൽ നിന്നോ വന്നതാകാം എന്നത് പ്രശ്നമല്ല പക്ഷേ പഠന സിദ്ധാന്തങ്ങൾ പഠനത്തിന്റെ സാമൂഹ്യശാസ്ത്രം വിവിധ വിദ്യാഭ്യാസ മനഃശ്ശാസ്ത്ര തത്ത്വങ്ങൾ എന്നിവ മനസിലാക്കാൻ അദ്ദേഹം ധാരാളം സമയം ചെലവഴിക്കും ഒപ്പം ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യകളെക്കുറിച്ച് അയാൾക്ക് അവബോധവുമുണ്ട് ഇൻസ്ട്രക്ഷണൽ ഡിസൈനർ എന്നൊരു തൊഴിൽ പോലും ഉണ്ട് കൂടാതെ മാസ്റ്റർ ബിരുദവും പിഎച്ച്ഡി ബിരുദങ്ങളും ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ മേഖലയിൽ നൽകിപ്പോരുന്നുണ്ട് ഇൻസ്ട്രക്ഷണൽ ഡിസൈനർക്ക് ഏതെങ്കിലും വിഷയത്തിൽ നിന്നുള്ള ഒരു അധ്യാപകനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയും സാമ്പത്തിക അധ്യാപനം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ എന്നിവ പഠിപ്പിക്കുന്ന അധ്യാപകനോടൊപ്പം സ്കൂൾ അധ്യാപകർക്കൊപ്പം ഒക്കെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും യഥാർത്ഥ ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ഒരു തരം ഗ്രൂപ്പ് പ്രവർത്തനമായി മാറുന്നു സാധാരണയായി മൂന്ന് പ്രധാന ഗ്രൂപ്പുകളുണ്ട് ഒരാൾ ഇൻസ്ട്രക്ഷണൽ ഡിസൈനർ മറ്റൊരാൾ സബ്ജക്റ്റ് വിദഗ്ധൻർ അല്ലെങ്കിൽ കോഴ്സ് പഠിപ്പിക്കുന്ന അദ്ധ്യാപകൻർ മറ്റൊരു ഗ്രൂപ്പ് ആവശ്യകത അനുസരിച്ച് ഒന്നോ രണ്ടോ പേര് കൂടിയുള്ള സാങ്കേതിക ഗ്രൂപ്പ് ആനിമേഷനുകളുടെയോ വെബ് പേജുകളുടെയോ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു കോഴ്സ് സൃഷ്ടിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ആ സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കുന്നതിൽ വിദഗ്ധരായ ആളുകളെ നിങ്ങൾ ആവശ്യപ്പെടുന്നു എന്നാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് സാധാരണയായി വിഷയവിദഗ്ദ്ധർ അവരായിരിക്കണം തീരുമാനം എടുക്കുന്നവർ എന്ന് പരിഗണിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം അവർ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് കോഴ്സ് എങ്ങനെ പഠിപ്പിക്കണമെന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ സാധാരണയായി ഇൻസ്ട്രക്ഷൻ ഡിസൈനർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു കാരണം അവർ ഉള്ളടക്കത്തിലേക്ക് നോക്കുന്നില്ല അധ്യാപനത്തിന്റെയും പഠനത്തിന്റെയും സന്ദർഭത്തെ ആശ്രയിച്ച് അവർ അഭിപ്രായപ്പെടുന്നു അതിനാൽ ഒരു കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നതിൽ തീരുമാനമെടുക്കുന്നവർ ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് എല്ലായ്പ്പോഴും ഒരു ചെറിയ തർക്കമുണ്ട് ഞാൻ ഇത് മാത്രമേ നിർദ്ദേശിക്കുകയുള്ളൂ ഒരു പങ്കാളിയോ അധ്യാപകനോ എന്ന നിലയിൽ ഒരു ഇൻസ്ട്രക്ഷൻ രൂപകൽപ്പന പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഒരിക്കലും ആരാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന പ്രശ്നത്തിലേക്ക് പോകരുത് അത് ഒരു ഗ്രൂപ്പ് പ്രവർത്തനമായി കണക്കാക്കണം കൂടാതെ ഇൻസ്ട്രക്ഷണൽ ഡിസൈനർക്ക് സ്പെഷ്യലിസ്റ്റ് അറിവുണ്ട് അവിടെ ഒരു സാധാരണ അധ്യാപകനെന്ന നിലയിൽ വളരെ അപൂർവമായി മാത്രമേ ഇൻസ്ട്രക്ഷണൽ ഡിസൈനുമായി ബന്ധപ്പെട്ട എല്ലാ അറിവും നിങ്ങൾക് ഉണ്ടാകണമെന്നുള്ളൂ ഇൻസ്ട്രക്ഷൻ രൂപകൽപ്പനയുടെ തത്വങ്ങൾ ഉദാഹരണത്തിന് വിദ്യാർത്ഥികളെ ഗ്രൂപ്പുകളാക്കുന്നത് എപ്പോൾ പ്രയോജനപ്പെടുമെന്ന് തീരുമാനിക്കാൻ അവർക്ക് ഇൻസ്ട്രക്ടർമാരെ സഹായിക്കാനാകും നിങ്ങളുടെ കോഴ്സ് രൂപകൽപ്പനയ്ക്കിടെ എവിടെയെങ്കിലും ഒരു ഇൻസ്ട്രക്ടർ ചില ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ഗ്രൂപ്പ് പ്രവർത്തനം അവതരിപ്പിക്കേണ്ടത് എന്തിനും ഏതിനും ഇത് ചെയ്യാൻ കഴിയുമോ വിദ്യാർത്ഥികളെ ഗ്രൂപ്പുകളായി എപ്പോൾ ഉൾപ്പെടുത്തിയാൽ അവർക്ക് പ്രയോജനം ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ എങ്കിലും നൽകാൻ ഇൻസ്ട്രക്ഷൻ രൂപകൽപ്പനയുടെ തത്ത്വങ്ങൾക്ക് സാധിക്കുന്നു പരിശീലനവും ഫീഡ്ബാക്കും ഏറ്റവും ഫലപ്രദമാകുന്നത് എപ്പോഴാണ് എപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഫീഡ്ബാക്ക് നൽകുന്നത് പ്രശ്ന പരിഹാരത്തിനും ഉയർന്ന ഓർഡർ പഠന നൈപുണ്യത്തിനുമുള്ള മുൻവ്യവസ്ഥകൾ തിരിച്ചറിയുക നമ്മുടെ ലക്ഷ്യം എല്ലായ്പ്പോഴും പ്രശ്ന പരിഹാരത്തിനും ഉയർന്ന പഠന ക്രമത്തിനും നമ്മുടെ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുക എന്നതാണ് അതിനാൽ നിങ്ങൾ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്നതും മുൻവ്യവസ്ഥകൾ തിരിച്ചറിയുന്നതും പ്രശ്ന പരിഹാരിയാകാനോ ഉയർന്ന ഓർഡർ പഠന നൈപുണ്യം നേടാനോ വിദ്യാർത്ഥിയെ സജ്ജമാക്കുന്നത്തിന് ഒരു ക്രമം ഉണ്ട് അതാണ് ഇൻസ്ട്രക്ഷൻ രൂപകൽപ്പനയുടെ തത്വങ്ങൾ തീരുമാനിക്കാൻ ഇൻസ്ട്രക്ടറെ സഹായിക്കുന്നത് ഇൻസ്ട്രക്ഷൻ സാമഗ്രികളുടെ നിർമ്മാതാക്കൾക്ക് ഇത് ഉപയോഗപ്രദമാകും കൂടാതെ മെറ്റീരിയൽ കരിക്കുലം മെറ്റീരിയൽ ഡവലപ്പർമാർ വെബ് അധിഷ്ഠിത അല്ലെങ്കിൽ ഇ ലേണിംഗ് കോഴ്സ് ഡിസൈനർമാർ നോളജ് മാനേജുമെന്റ് സിസ്റ്റം ഡിസൈനർമാർ എന്നിവരെ ചിട്ടപ്പെടുത്താനും ഇത് സഹായിക്കുന്നു ഒരു ഇൻസ്ട്രക്ഷൻ രൂപകൽപ്പന സിദ്ധാന്തം എന്താണ് എങ്ങനെ ചെയ്യണമെന്നതിനെക്കുറിച്ച് വ്യക്തമായ മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ഒരു സിദ്ധാന്തമാണോ ഇത് പഠിക്കാനും വികസിക്കാനും ആളുകളെ എങ്ങനെ മികച്ച രീതിയിൽ സഹായിക്കാം ഇത് വിശാലമായി ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നു ഇത് ഡിസൈൻ അടിസ്ഥാനമാക്കിയുള്ള ഒരു സിദ്ധാന്തമാണ് എന്താണ് ഡിസൈൻ അടിസ്ഥാനമാക്കിയുള്ള സിദ്ധാന്തം മുമ്പത്തെ മൊഡ്യൂളിൽ നമ്മൾ അതിൽ അൽപം പര്യവേക്ഷണം നടത്തിയ്യിരുന്നു ഡിസൈൻ അടിസ്ഥാനമാക്കിയുള്ള സിദ്ധാന്തം എന്നതിനർത്ഥം നിങ്ങൾ ഈ നടപടിക്രമം പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച ഫലം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ നിർദ്ദേശിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായപ്പെടുന്നു ഇത് വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണങ്ങളിൽ ഭൂരിഭാഗവും നടക്കുന്ന വിവരണാത്മക സിദ്ധാന്തമല്ല ഇത് ഡിസൈൻ അടിസ്ഥാനമാക്കിയുള്ള ഒരു സിദ്ധാന്തമാണ് അതിനർത്ഥം ഒരു വ്യക്തിയെന്ന നിലയിൽ ഞാൻ നിർദ്ദേശിക്കുന്ന എ ബി സി ഡി ഘട്ടങ്ങൾ പിന്തുടരുകയാണെങ്കിൽ വിദ്യാർത്ഥി പഠിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ആ തീരുമാനം അവബോധപൂർവ്വം എടുക്കാം അല്ലെങ്കിൽ ചില സിദ്ധാന്തങ്ങൾ പിന്തുടരാം എന്നാൽ ഇത് അദ്വിതീയമല്ല അതായത് പരിഹാരം അനുപമമല്ല മാത്രമല്ല വിദ്യാർത്ഥികളെ മികച്ച രീതിയിൽ പഠിപ്പിക്കുന്നതിന് ആ പ്രത്യേക ഘട്ടങ്ങളുടെ മുൻഗണന നിങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട് ഇന്നത്തെ ലോകത്ത് എൻഎഎസി എൻബിഎ അക്രഡിറ്റേഷൻ എന്നിവയുടെ കാര്യത്തിൽ ഡിപ്പാർട്ട്മന്റിനോ ഇൻസ്റ്റിറ്റ്യൂട്ടിനോ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതുണ്ട് നിങ്ങൾ ചില പരിശീലനം പിന്തുടരുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്താം എന്ന സമ്പ്രദായം ഏതെങ്കിലുമൊക്കെ വിഷയുവുമായി ബന്ധപ്പെട്ടു സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നതിന് ഈ ഇൻസ്ട്രക്ഷൻ രൂപകൽപ്പന തത്വങ്ങളെക്കുറിച്ച് ഒരു അദ്ധ്യാപകന് അറിയാമെങ്കിൽ മികച്ച പഠനത്തിലേക്ക് നയിച്ച ഒരു പരിശീലനം സൂക്ഷ്മനിരീക്ഷണം ചെയ്യാൻ ഒരാൾക്ക് കഴിഞ്ഞേക്കും ഒരു നല്ല പരിശീലനമായി നമുക്ക് അത് രേഖപ്പെടുത്താം ഇന്ന് നല്ല പരിശീലനങ്ങൾ നൽകുന്നത് അക്രഡിറ്റേഷന്റെ ആവശ്യകതകളിലൊന്നാണ് ഇൻസ്ട്രക്ഷൻ രൂപകൽപ്പന സിദ്ധാന്തം ഇൻസ്ട്രക്ഷൻ രീതികളെ തിരിച്ചറിയുന്നു പഠനത്തെ പിന്തുണയ്ക്കുന്നതിനും സുഗമമാക്കുന്നതിനുമുള്ള മാർഗങ്ങളായ പല തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ രീതികളും ആ രീതികൾ ഉപയോഗിക്കേണ്ടതും ഉപയോഗിക്കരുതാത്തതുമായ സാഹചര്യങ്ങളുമുണ്ട് എല്ലാത്തിനും ഒരു രീതി ഉപയോഗിക്കുന്നത് നന്നല്ല സാഹചര്യത്തെ ആശ്രയിച്ച് നിങ്ങൾ ഒരു രീതി തിരഞ്ഞെടുക്കുന്നു രീതികളെയും സാഹചര്യങ്ങളെയും രൂപകൽപ്പന ചെയ്യുന്നതിനും ക്രമീകരിക്കുന്നതിനും ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ സിദ്ധാന്തങ്ങൾ സഹായിക്കും നിങ്ങൾ എടുക്കുന്ന ഏത് രീതിയും വിശദമായ ഘടക രീതികളായി വിഭജിക്കാം ഉദാഹരണത്തിന് ഒരു ഗ്രൂപ്പ് ചർച്ചയിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കാൻ താൽപ്പര്യപ്പെടുമ്പോൾ ആളുകൾക്കുള്ള വ്യത്യസ്ത പങ്കുകൾ നിങ്ങൾ തിരിച്ചറിയണം ആരാണ് ചർച്ചയെ ഏകോപിപ്പിക്കുന്നത് നിങ്ങൾ എങ്ങനെ ചർച്ചയെ സംഗ്രഹിക്കുന്നു അതുപോലുള്ള ഒരുപാട് ഘടകങ്ങളും ഉണ്ടാകാം ഏത് രീതിയിലുള്ള നിർദ്ദേശവും കൂടുതൽ വിശദമായ ഘടകങ്ങളായി വിഭജിക്കാം ഒരു കാര്യം ഓർമ്മിക്കേണ്ടതാണ് രീതികൾ ഡിറ്റർമിനിസ്റ്റിക്ക് നെക്കാൾ പ്രോബബിലിസ്റ്റിക് ആണ് നിങ്ങൾ ഒരു രീതി പ്രയോഗിച്ചതുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയും യാന്ത്രികമായി പഠിക്കുമെന്ന് അർത്ഥമാക്കുന്നില്ല നിങ്ങൾ എന്തുതന്നെ ചെയ്താലും ചില വിദ്യാർത്ഥികൾ പഠിച്ചേക്കില്ല അതിനുള്ള കാരണങ്ങൾ നമുക്ക് പോലും അറിയില്ലായിരിക്കാം അത് വിദ്യാർത്ഥിയുടെ പങ്കാളിത്തത്തിന്റെ അഭാവം മൂലമാകണമെന്നില്ല പക്ഷേ ചില വിദ്യാർത്ഥികളിൽ ചില കാര്യങ്ങൾ പ്രാവർത്തികം ആകാത്തതിന് പല കാരണങ്ങൾ ഉണ്ടാകാം ഇത് എല്ലായ്പ്പോഴും പ്രോബബിലിസ്റ്റിക് മാത്രമാണെന്ന് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും പറയാൻ കഴിയും വിദ്യാർത്ഥികളുടെ പ്രകടനത്തിൽ 15 ശതമാനം പുരോഗതിയുണ്ടോ എന്ന് ശരാശരി നമുക്ക് പറയാൻ കഴിയും എന്നാൽ ആ 15 ശതമാനം എല്ലാ വിദ്യാർത്ഥികൾക്കും ബാധകമാകണമെന്നില്ല അതിനാൽ രീതികൾ പ്രോബബിലിസ്റ്റിക് ആണ് ഡിറ്റർമിനിസ്റ്റിക്ക് അല്ല പ്രബോധന സാഹചര്യങ്ങൾ എല്ലാ സ്ഥാപനങ്ങളും ഒരുപോലെയല്ല ഓരോരുത്തർക്കും ഉള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വ്യത്യസ്തമാണ് നിങ്ങൾക്ക് ഫാനുള്ള ഒരു ക്ലാസ് റൂം ഉണ്ടായിരിക്കാം അതിനാൽ ബാക്ക്ബെഞ്ചിലുള്ള വ്യക്തിക്ക് കേൾക്കാനാകണമെന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന തരത്തിലുള്ള ബോർഡുകൾ അത് വിദ്യാർത്ഥികൾക്ക് വ്യക്തമല്ലായിരിക്കാം അതിനാൽ ഇൻസ്ട്രക്ഷൻ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അനന്തമായ വ്യത്യാസങ്ങളുണ്ട് പഠിക്കേണ്ടതിന്റെ സ്വഭാവമനുസരിച്ച് സാഹചര്യം തീരുമാനിക്കപ്പെടുന്നു ഇത് ഒരു ഗണിതശാസ്ത്ര കോഴ്സാണോ അതോ മെറ്റീരിയൽ സയൻസിനെക്കുറിച്ചുള്ള വിവരണാത്മക കോഴ്സാണോ ഇത് പഠിക്കേണ്ടതിന്റെ സ്വഭാവത്തെയും പഠിതാവിന്റെ സ്വഭാവത്തെയും നിങ്ങൾക്ക് ലഭ്യമായ പഠന പരിസ്ഥിതിയുടെ സ്വഭാവത്തെയും ഇൻസ്ട്രക്ഷനൽ വികസന പരിമിതികളുടെ സ്വഭാവത്തെയും ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സാമ്പത്തിക പരിമിതികൾ സമയ പരിമിതികൾ ഉപകരണ പരിമിതികൾ തുടങ്ങിയവ ഉണ്ടാകാം ഈ ഘടകങ്ങളെല്ലാം ഇൻസ്ട്രക്ഷനൽ സാഹചര്യത്തിന്റെ സവിശേഷതയാണ് ഇൻസ്ട്രക്ഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇത് ഫലപ്രദമായിരിക്കണം ചില പ്രത്യേക ഔട്കമുകൾ നേടാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് നിങ്ങൾ നിർദ്ദേശം നൽകുന്നു അതാണ് അടിസ്ഥാന ആവശ്യം എന്റെ ഇൻസ്ട്രക്ഷൻ രീതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് ഈ ഔട്കമുകൾ മികച്ച രീതിയിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫലപ്രദമാണ് വിദ്യാർത്ഥികളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഞാൻ ഉപയോഗിക്കുന്ന ഏത് തരത്തിലുള്ള ടെസ്റ്റുകളിലും വിലയിരുത്തലുകളിലും കൂടി ഞാൻ അതിന്റെ പ്രയോജനം അളക്കും മറ്റൊന്ന് അത് കാര്യക്ഷമമായിരിക്കണം എന്നതാണ് ഏത് ഇൻസ്ട്രക്ഷനൽ രീതിയും സമയവും മറ്റ് വിഭവങ്ങളും കണക്കിലെടുത്ത് കാര്യക്ഷമമായിരിക്കണം ഇത് ഫലപ്രദമാകുന്നതിന് എനിക്ക് എല്ലാത്തരം വിഭവങ്ങളും ആവശ്യപ്പെടാം പക്ഷേ അത് കാര്യക്ഷമമായിരിക്കണമെന്നില്ല ഉദാഹരണത്തിന് ഒരു പ്രത്യേക ആശയം ഊന്നിപ്പറയുന്നതിന് ചില ആളുകൾ കുറച്ച് ദിവസത്തേക്ക് വർക്ക് ഷോപ്പുകൾ നടത്തുന്നു നിങ്ങൾ ഉപയോഗിച്ച വിഭവങ്ങളും അധ്യാപകന്റെ കഴിവും മറ്റും കാരണം ഇത് വളരെ ഫലപ്രദമാകാം പക്ഷെ ഞങ്ങൾക്ക് ഇതിനെ കാര്യക്ഷമമെന്ന് വിളിക്കാൻ കഴിയില്ല കാരണം ഒരു ആശയവുമായി ബന്ധപ്പെട്ട് ഒരു സാധാരണ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ വിഭവമോ അതിനുള്ള സമയമോ ലഭിക്കാൻ സാധ്യതയില്ല മൂന്നാമത്തേത് അത് ആകർഷിക്കണം എന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ഏത് രീതിയും ആളുകൾക്ക് പങ്കെടുക്കാനോ ഇടപഴകാനോ തോന്നണം ഫലപ്രാപ്തി കാര്യക്ഷമത ഇടപഴകൽ എന്നിവയെ ഇൻസ്ട്രക്ഷനൽ ഔട്കമുകൾ എന്ന് നമുക്ക് വിളിക്കാം ചിലപ്പോൾ ഞങ്ങൾ ഈ നിർദ്ദേശം E3 നിർദ്ദേശം എന്ന് പറയാറുണ്ട് എഫക്റ്റീവ്നെസ്സ് എഫിഷ്യൻസി എൻഗേജിങ് ചിലപ്പോൾ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ഘടകങ്ങളിലൊന്ന് ഉപേക്ഷിക്കേണ്ടിവരാം ഉദാഹരണത്തിന് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ എനിക്ക് ഇത് കാര്യക്ഷമമാക്കാൻ കഴിഞ്ഞേക്കില്ല ആശയത്തിന്റെ പ്രാധാന്യം കാരണം ഞാൻ സമയം ഒപ്റ്റിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല അതിനാൽ ഇക്കാര്യത്തിൽ അത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാത്തത് ഞാൻ പ്രശ്നമാക്കുന്നില്ല ചിലപ്പോൾ സാഹചര്യത്തെ ആശ്രയിച്ച് നിങ്ങൾക്ക് ഈ ഘടകങ്ങളിലൊന്ന് ബലിയർപ്പിക്കേണ്ടി വന്നേക്കാം ഇൻസ്ട്രക്ഷണൽ സിസ്റ്റം ഡിസൈൻ മോഡലുകൾ ഒരു കൂട്ടം മോഡലുകൾ തന്നെ ഉണ്ട് ഒരു വർക്ക്ഷോപ്പ് ഒരു കോഴ്സ് ഒരു പാഠ്യപദ്ധതി ഒരു ഇൻസ്ട്രക്ഷണൽ പ്രോഗ്രാം ഒരു പരിശീലന സെഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രോഗ്രാമുകൾക്കായുള്ള ഇൻസ്ട്രക്ഷണൽ സാമഗ്രികളും ഉൽപ്പന്നങ്ങളും സൃഷ്ടിക്കുന്നതിന് ഇൻസ്ട്രക്ഷണൽ ഡിസൈനർമാർ പിന്തുടരുന്ന ചിട്ടയായ മാർഗ്ഗനിർദ്ദേശങ്ങളാണ് അവ അടിസ്ഥാനപരമായി ഐഎസ്ഡി മോഡൽ എന്നത് നിങ്ങൾ പിന്തുടരുന്ന ഒരു കൂട്ടം മാർഗ്ഗനിർദ്ദേശങ്ങളാണ് അതിൽ കൂടുതൽ ഒന്നുമില്ല അതായത് നിങ്ങൾ കാര്യങ്ങൾ ഒരു ക്രമം അനുസരിച്ച് ചെയ്യുന്നു അപ്പോൾ അത് മികച്ച പഠനത്തിന് കാരണമാകും പഠനം ഒരു അസ്വാഭാവിക രീതിയിലല്ല സംഭവിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് ഐഎസ്ഡി നിർദ്ദിഷ്ട അളക്കാവുന്ന ഔട്കമുകൾ ഉള്ള ഒരു പ്രക്രിയ ഉപയോഗിച്ച് ഇത് വികസിപ്പിച്ചെടുക്കുന്നു ഇൻസ്ട്രക്ഷണൽ ഡിസൈനറുടെ ഉത്തരവാദിത്തം ഇൻസ്ട്രക്ഷനൽ അനുഭവങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇത് പഠിതാക്കൾ ഇൻസ്ട്രക്ഷന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുമെന്നോ ഈ ഇൻസ്ട്രക്ഷനുകൾ സൃഷ്ടിക്കുമെന്നോ ഉറപ്പാക്കുന്നു ADDIE മോഡൽ ഒരു ISD മോഡൽ ആണ് അനാലിസിസ് ഡിസൈൻ ഡവലപ്മെന്റ് ഇമ്പ്ലിമെൻറ് ഇവാല്യുവേറ്റ് എന്നിവയുടെ ചുരുക്കമാണ് ADDIE ഒരു ലേർണിംഗ് പ്രോഡക്റ്റ് വികസിപ്പിക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് ADDIE ലേർണിംഗ് പ്രോഡക്റ്റ് എന്നത് വിദ്യാർത്ഥിക്ക് ചെയ്യാൻ കഴിയുന്നതാണ് മാത്രമല്ല ഇത് നിങ്ങൾ സൃഷ്ടിക്കുന്ന ചില ഉള്ളടക്കവും ആകാം ഔട്ട്കം അടിസ്ഥാനമാക്കിയുള്ള പഠനം നിർമ്മിക്കുന്നതിന് ഈ ADDIE ആശയം പ്രയോഗിക്കാൻ കഴിയും ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം ഒരു ആഴ്ചത്തെ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഹ്രസ്വകാല പ്രോഗ്രാം അല്ലെങ്കിൽ വർക്ക് ഷോപ്പ് രൂപകൽപ്പന ചെയ്യുന്നതല്ലെന്ന് പറയട്ടെ ഒരു സെമസ്റ്റർ കോഴ്സ് രൂപകൽപ്പന ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഈ കോഴ്സ് ചില ഔട്കമുകൾ നേടാനായി രൂപകൽപ്പന ചെയ്യേണ്ടതാണ് ഔട്ട്കം അടിസ്ഥാനമാക്കിയുള്ള പഠനം നിർമ്മിക്കുന്നതിന് പ്രയോഗിക്കാവുന്ന ഒരു ആശയമാണ് ADDIE 1975 മുതൽ സജീവവും മൾട്ടി ഫങ്ഷണലും സ്ഥായിയായതും പ്രചോദനാത്മകവുമായ പഠന സമീപനം സാധ്യമാക്കുന്ന ഒരു ചട്ടക്കൂടായി ADDIE പരിണമിച്ചു ഇതിന്റെ എല്ലാ ഘടകങ്ങളും നോക്കാം 1975 ൽ ADDIE എന്ന വാക്ക് ഉപയോഗിച്ചതോടെയാണ് ഇതെല്ലാം ആരംഭിച്ചത് ഇത് സജീവമായ പഠനത്തിനും മൾട്ടിഫങ്ഷണൽ പഠനത്തിനും സഹായിക്കുന്നു അത് സാഹചര്യപരമായിരുന്നു എല്ലായ്പ്പോഴും ഒരു സാഹചര്യമുണ്ട് അതാണ് സാഹചര്യ നിർദ്ദിഷ്ട ഇൻസ്ട്രക്ഷനുകൾ സൃഷ്ടിക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇത് പ്രചോദനാത്മക പഠനവും ആകാം ചിലപ്പോൾ നിങ്ങൾ ഒരു അനുഭവത്തിൽ പങ്കെടുക്കുമ്പോഴോ ഒരു പ്രഭാഷണം കേൾക്കുമ്പോഴോ അത് തികച്ചും പ്രചോദനകരമാകാം അതും ADDIE യുടെ ഘടകങ്ങളിൽ ഒന്നായിരിക്കാം നിങ്ങൾ ഒരു പ്രക്രിയ പിന്തുടരുന്നതിനാൽ അത് പ്രചോദനാത്മകമല്ലെന്ന് ഇതിനർത്ഥമില്ല ADDIE യുടെ ചരിത്രം നോക്കാം ADDIE ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് 1975 ലാണ് യു എസ് സൈന്യത്തിനായി ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ എഡ്യൂക്കേഷൻ ടെക്നോളജി ഇത് സൃഷ്ടിച്ചതാണെന്നും പിന്നീട് എല്ലാ യുഎസ് സായുധ സേനകളും ഇത് സ്വീകരിച്ചുവെന്നും നിങ്ങൾ ഓർക്കണം ഇന്ന് യുഎസ് സായുധ സേനയ്ക്കുള്ള എല്ലാ പരിശീലന പരിപാടികളും ADDIE മോഡൽ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്നത് അവർ തുടരുന്നു അതിനാൽ ചില ആളുകൾ അവകാശപ്പെടുന്നതുപോലെ ഇത് കാലഹരണപ്പെട്ട ഒന്നല്ല യഥാർത്ഥത്തിൽ ADDIE ആരംഭിച്ചത് വാട്ടർഫാൾ മോഡലിലാണ് അതിനർത്ഥം നിങ്ങൾ ഒരു ഘട്ടം പൂർത്തിയാക്കി അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു നിർഭാഗ്യവശാൽ ചില ആളുകൾ അത് മാത്രം ഓർത്തുകൊണ്ട് ADDIE അപ്രസക്തമാണെന്ന് വാദിക്കുന്നു എന്നാൽ ADDIE തുടക്കത്തിൽ ഉണ്ടായിരുന്ന യഥാർത്ഥ വാട്ടർഫാൾ മോഡലിൽ നിന്നും 1984 ൽ ഡൈനാമിക് സിസ്റ്റം മോഡലിലേക്ക് മാറി 1984 മുതൽ ഇത് യഥാർത്ഥത്തിൽ ഒരു സിസ്റ്റം മോഡലാണ് യുഎസ് പ്രതിരോധ സേവനങ്ങൾ അവരുടെ എല്ലാ പരിശീലന പരിപാടികളും ADDIE ISD ഇൻസ്ട്രക്ഷണൽ സിസ്റ്റം ഡിസൈൻ ൽ രൂപകൽപ്പന ചെയ്യുകയും നടത്തുകയും ചെയ്യുന്നു അതിശയകരമെന്നു പറയട്ടെ നിരവധി ആളുകൾ ADDIE യെ ആക്രമിക്കുകയും അവർ സ്വന്തമായി മോഡലുകൾ സൃഷ്ടിക്കുകയും ചെയ്തു നമ്മൾ ഇപ്പോൾ പട്ടിക കാണും മറ്റെല്ലാ ഐഎസ്ഡികളും ADDIE മോഡലിന്റെ ചെറിയ വകഭേദങ്ങളാണ് ഇവ ADDIE മോഡലിന്റെ സൌന്ദര്യവർദ്ധക മാറ്റങ്ങളാണെന്ന് ഞാൻ കരുതുന്നു ADDIE മോഡൽ വിശകലനം രൂപകൽപ്പന വികസനം നടപ്പിലാക്കൽ വിലയിരുത്തൽ എന്ന നമ്മൾ ഇതിനകം തിരിച്ചറിഞ്ഞ 5 ഘട്ടങ്ങളുണ്ട് എന്നിട്ട് നമ്മൾ മറ്റൊരു 'വിലയിരുത്തൽ' ഇടതുവശത്ത് ചേർക്കുന്നു ADDIE മോഡൽ അനുസരിച്ച് ഒരു കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നത് എങ്ങനെ പരിണമിക്കും അനലൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ആരംഭിക്കുന്നത് അത് എങ്ങനെയാണെന്ന് നമ്മൾ കാണും അനലൈസ് ഘട്ടവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക് ശേഷം നിങ്ങൾ അത് ആരെയെങ്കിലും കൊണ്ട് വിമർശനത്തിനും വിശകലനത്തിനും വിധേയമാകുന്നു അവർ സമപ്രായക്കാരാകാം അല്ലെങ്കിൽ അതുമായി ബന്ധപെട്ടവരോ ആകാം ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് വിലയിരുത്തുന്നു അവർ ചില ഇൻപുട്ടുകൾ നൽകിയേക്കാം നിങ്ങൾ അത് എടുത്ത് നിങ്ങളുടെ വിശകലനം വീണ്ടും ചെയ്യുക ഇത് ഒരു തരത്തിലുള്ള ഫീഡ്ബാക്ക് സംവിധാനം ആകുന്നു അനലൈസ് ഘട്ടം പൂർത്തിയാക്കിയ ശേഷം ആവശ്യമെങ്കിൽ ഇവിടെ ഒന്നിലധികം ആവർത്തനങ്ങളിലൂടെ അനലൈസ് ഡിസൈൻ ഘട്ടം പോകുന്നു യഥാർത്ഥ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നത് ഒരു കൂട്ടം ആളുകൾ ആണ് അവർ നിരന്തരം ചർച്ച ചെയ്യുന്നു അതായത് അനലൈസ് ഘട്ടത്തിലെ പ്രവർത്തനങ്ങളുടെ അന്തിമരൂപം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് മുമ്പ് ഈ പ്രക്രിയ തുടർച്ചയായി തുടരും അവിടെ നിന്ന് നിങ്ങൾ ഡിസൈൻ ഘട്ടത്തിലേക്കു വരുന്നു ഡിസൈനുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ ഉണ്ട് അവിടെയും നിങ്ങൾ ഇത്തരത്തിലുള്ള മൂല്യനിർണ്ണയത്തിലൂടെ കടന്നുപോകുന്നു നമുക്ക് ഇതിനെ ഫോർമാറ്റീവ് മൂല്യനിർണ്ണയം എന്ന് വിളിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് തിരികെ പോയി അനലൈസ് ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ പരിഷ്കരിക്കേണ്ടതായി വരാം എല്ലായ്പ്പോഴും ഈ ഫീഡ്ബാക്ക് നടക്കുന്നുണ്ടെന്ന് ഓർമ്മിക്കുക തുടർന്ന് അതേ നടപടിക്രമം തുടരുന്നു ഡിസൈൻ ഘട്ടത്തിന്റെ ഔട്ട്പുട്ട് നിങ്ങൾ ഡെവലപ്മെന്റിലേക്ക് പോകുന്നു ആവശ്യമെങ്കിൽ നിങ്ങൾ തിരികെ പോകുകയും ചിലപ്പോൾ അനലൈസ് ഘട്ടത്തിലേക്ക് പോകുകയും ചെയ്യുന്നു തുടർന്ന് ഇമ്പ്ലിമെൻറ് ചെയ്യുന്നു നിങ്ങൾ വീണ്ടും ചെയ്യുന്നു ഈ ഓരോ ഘട്ടവും എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഇപ്പോൾ കാണും അവസാനം ഇവാല്യുവേഷൻ ഘട്ടത്തിലേക്കു വരുന്നു ഇതൊരു തരം സമ്മേറ്റിവ് ഇവാല്യുവേഷൻ ആകുന്നു ഇടത് വശത്തുള്ള ഈ ഇവാല്യുവേഷൻ പ്രക്രിയയെ ഫോർമാറ്റീവ് ഇവാല്യുവേഷൻ എന്ന് വിളിക്കാം ഈ മാതൃകയിൽ ഇവാല്യുവേഷൻ പദം രണ്ടുതവണ ദൃശ്യമാകുന്നത് അതുകൊണ്ടാണ് ഇത് തീർച്ചയായും ഒരു വാട്ടർഫാൾ മോഡലല്ല ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു അത് തുടർന്നുകൊണ്ടേയിരിക്കും ഞാൻ അനലൈസ് ഘട്ടത്തിലേക്ക് തിരിച്ചുവരുന്നു അത് പരിഷ്ക്കരിക്കുന്നു തുടർച്ചയായ ഫീഡ്ബാക്ക് ഉണ്ട് മുന്നോട്ടും പിന്നോട്ടും നിങ്ങൾ ഡിസൈനിലേക്ക് പോകുന്നതിനുമുമ്പ് അനലൈസ് ഘട്ടത്തിന്റെ ഔട്ട്പുട്ടുകളുടെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കേണ്ട ആവശ്യമില്ല എങ്ങനെയോ മറ്റ് പലരും ADDIE ഒരു വാട്ടർഫാൾ മോഡൽ അല്ലെങ്കിൽ ഒരു ലീനിയർ ഫേസ് മോഡൽ ആണെന്ന് കരുതുന്നു ഘട്ടങ്ങളുടെ ആദ്യ ലെവൽ വിവരണം അൽപം നോക്കാം നമ്മൾ പിന്നീട് കൂടുതൽ വിശദമായി നോക്കും ADDIE അനുസരിച്ച് അനലൈസ് ചെയ്യുന്ന ഘട്ടം ടാർഗെറ്റ് ഗ്രൂപ്പിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നു ടാർഗെറ്റ് ഗ്രൂപ്പിന്റെ എൻട്രി കഴിവുകളെ തിരിച്ചറിയുന്നു ഈ ആവശ്യങ്ങളെ ഒരു കൂട്ടം പഠന ഔട്കങ്ങളിലേക്ക് വിവർത്തനം ചെയ്യുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം പോലുള്ള ഒരു ഔപചാരിക പ്രോഗ്രാമിൽ ടാർഗെറ്റ് ഗ്രൂപ്പിന്റെ ആവശ്യങ്ങൾ ഇതിനകം തന്നെ ഒരു പാഠ്യപദ്ധതി രൂപകൽപ്പനയിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതേസമയം ഒരു കമ്പനിക്കായി നിങ്ങൾ ഒരു പ്രോഗ്രാം രൂപകൽപ്പന ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ടാർഗെറ്റ് ഗ്രൂപ്പ് എന്താണെന്ന് നിങ്ങൾ നോക്കേണ്ടതുണ്ട് അതുപോലെ നിങ്ങൾ കോഴ്സുകൾ ക്രമപെടുത്തുമ്പോൾ ഈ കോഴ്സിലേക്ക് വരുന്നതിനുമുമ്പ് വേണ്ട മുൻവ്യവസ്ഥാ കോഴ്സുകൾ ഇതിനു മുമ്പായി നടക്കത്തക്ക രീതിയിൽ ക്രമപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ ഔപചാരിക എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ ടാർഗെറ്റ് ഗ്രൂപ്പിന്റെ പ്രവേശന ശേഷിയെകുറിച്ച് അധികം ആശങ്കപ്പെടേണ്ടതില്ല എന്നാൽ പ്രധാന പ്രവർത്തനം ഒരു കൂട്ടം പഠന ഔട്കമുകൾ അല്ലെങ്കിൽ നമ്മൾ കോഴ്സ് ഔട്കങ്ങളായി വിളിക്കുന്ന അവയെ സൃഷ്ടിക്കുക എന്നതാണ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകമായി അനലൈസ് ചെയ്യുന്ന ഘട്ടം നോക്കുമ്പോൾ അതാണ് നമ്മൾ നോക്കുക ഡിസൈൻ ഘട്ടം കോഴ്സ് ഡെലിവർ ചെയ്യുന്നതിനും സമ്മേറ്റിവ് വിലയിരുത്തലുകൾ സൃഷ്ടിക്കുന്നതിനും നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം സാങ്കേതികവിദ്യകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഡിസൈൻ ഘട്ടത്തിലെ പ്രധാന പ്രവർത്തനം സമ്മേറ്റിവ് വിലയിരുത്തലുകൾ സൃഷ്ടിക്കുക എന്നതാണ് ഡെവലപ്മെന്റ് ഘട്ടത്തെ പഠന രൂപകൽപ്പന എന്നും വിളിക്കുന്നു പക്ഷേ നമ്മൾ ഡെവലപ്മെന്റ് ഘട്ടം എന്ന പദത്തിനൊപ്പം നിൽക്കും ഇൻസ്ട്രക്ഷനൽ ഇവന്റുകൾ രൂപകൽപ്പന ചെയ്യും അല്ലെങ്കിൽ പഠന ഇവന്റുകൾക്കായി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കും ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുക ഏത് ക്രമത്തിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ സ്ക്രിപ്റ്റ് ചെയ്യുക വിശദാംശങ്ങൾ പൂരിപ്പിക്കുകയല്ല മറിച്ച് ഒരു നാടകത്തിനോ സിനിമയ്ക്കോ ഉള്ള സ്ക്രിപ്റ്റ് പോലെ ഒരു സ്ക്രിപ്റ്റ് എഴുതുക എന്നതാണ് ഇൻസ്ട്രക്ഷനൽ സാമഗ്രികൾ വികസിപ്പിക്കുന്നതും പഠന സാമഗ്രികൾ വികസിപ്പിക്കുന്നതും ആണ് ഡിസൈൻ ഘട്ടത്തിലെ പ്രധാന പ്രവർത്തനം ഇമ്പ്ലിമെൻറ് ഘട്ടം നിങ്ങൾ യഥാർത്ഥ നിർദ്ദേശവും വിലയിരുത്തലും നടത്തുന്നു അതായത് നിങ്ങൾ ക്ലാസുകൾ എടുക്കുന്നു ട്യൂട്ടോറിയലുകൾ നടത്തുന്നു ടെസ്റ്റ് നടത്തുന്നു മാർക്ക് അറിയുന്നു അങ്ങനെ ആ പ്രക്രിയയിൽ നിങ്ങൾ പഠിതാവിന്റെ പുരോഗതി ട്രാക്കുചെയ്യുകയും ആവശ്യമെങ്കിൽ പിന്തുണ നൽകുകയും ചെയ്യുന്നു നമ്മൾ ചിത്രത്തിൽ കണ്ടതുപോലെ ഇടത് കൈ ലംബമായ കാണുന്ന ഇവാല്യുവേഷൻ ഘട്ടം നമ്മൾ അതിനെ ഫോർമാറ്റീവ് മൂല്യനിർണ്ണയം എന്ന് വിളിക്കുന്നു അവസാനത്തെത് സമ്മേറ്റിവ് മൂല്യനിർണ്ണയം എന്ന് വിളിക്കുന്നു ഫോർമാറ്റീവ് മൂല്യനിർണ്ണയത്തിൽ ആ ഘട്ടത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും പുനരവലോകനങ്ങൾ ആവശ്യമാണോ എന്ന് തീരുമാനിക്കുന്നതിന് ഓരോ ഘട്ടത്തിൻറെയും അവസാനം നമ്മൾ ഫോർമാറ്റീവ് വിലയിരുത്തൽ ഏറ്റെടുക്കുന്നു അതേസമയം സമ്മേറ്റിവ് മൂല്യനിർണ്ണയം പഠിതാക്കളെയും ഇൻസ്ട്രക്ഷനൽ സംവിധാനത്തെയും പരിശോധിച്ചുകൊണ്ട് ആവശ്യമാണോ എന്ന് നോക്കും ആവശ്യമെങ്കിൽ ഇൻസ്ട്രക്ഷനൽ രൂപകൽപ്പനയുടെ അടുത്ത പതിപ്പിനൊപ്പം പ്രക്രിയ ആവർത്തിക്കും തുടർച്ചയായ മെച്ചപ്പെടുത്തൽ അല്ലെങ്കിൽ ഡെമിംഗ് സൈക്കിൾ എന്നിവയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് പൂർണ്ണമായും അതിനു കീഴിലാണ് അതായത് എന്തെങ്കിലും ചെയ്തുന്നു അത് എത്രത്തോളം ഫലങ്ങൾ കൈവരിക്കാൻ സഹായിച്ചു എന്ന് കണ്ടെത്തുന്നു ഏതെങ്കിലും രീതിയിൽ ഒരു നേട്ട വിടവ് ഉണ്ടെങ്കിൽ അടുത്ത തവണ നിങ്ങൾ കോഴ്സ് വാഗ്ദാനം ചെയ്യുമ്പോൾ ആ വിടവ് നികത്താൻ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അധിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അതാണ് സംഗ്രഹ വിലയിരുത്തൽ ADDIE യുടെ പ്രധാന സവിശേഷതകൾ 1984 ന് ശേഷം ഇത് ലീനിയർ പ്രക്രിയയല്ല പക്ഷേ ആവർത്തനമാണ് ഏത് ഘട്ടത്തിലുമുള്ള പ്രവർത്തനങ്ങളും മറ്റെല്ലാ ഘട്ടങ്ങളിലും സ്വാധീനം ചെലുത്തുന്നു അതിനാൽ എല്ലാ സ്ഥലങ്ങളിലും ഫീഡ്ബാക്കുകളുടെ സാന്നിധ്യം ആവശ്യമാണ് ഏത് സമയത്തും എന്ത് മാറ്റുമ്പോഴും മറ്റ് ഘട്ടങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങൾ എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും അവ പ്രാദേശികമായി നിലനിൽക്കില്ല മാത്രമല്ല ഇത് മുഴുവൻ കാര്യങ്ങളിലും സ്വാധീനം ചെലുത്തും ഏത് ഘട്ടത്തിന്റെയും ഔട്ട്പുട്ട് ബന്ധപ്പെട്ട പങ്കാളികൾ ഫോർമാറ്റീവ് വിലയിരുത്തലുകൾക് വിധേയമാക്കുന്നു ഉപ പ്രക്രിയകൾ ഓരോ ഘട്ടത്തിലും ഒരു കൂട്ടം ഉപ പ്രക്രിയകൾ നിർദ്ദേശിക്കും അവ സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കും അടുത്ത യൂണിറ്റിൽ അനലൈസ് ഘട്ടത്തിന്റെ ഉപ പ്രക്രിയകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ അത് പരിശോധിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നൽകിയ പ്രക്രിയകളുമായി യോജിക്കാതെ നിൽക്കാം അവ പരിഷ്കരിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാൽ അവയുടെ ആഘാതം നിങ്ങൾ പരിശോധിച്ച് കൊണ്ടിരിക്കണം അടുത്ത യൂണിറ്റിലെ ഉപ പ്രക്രിയകളുടെ ഒരു ശ്രേണി ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കും ഒരു കൂട്ടം മറ്റ് ഐഎസ്ഡി മോഡലുകൾ ഉള്ളത് ഞങ്ങൾ പട്ടികപ്പെടുത്തുന്നു ഉദാഹരണത്തിന് റാപിഡ് പ്രോട്ടോടൈപ്പിംഗ് ഡിക്ക് കാരി സിസ്റ്റംസ് അപ്രോച്ച് മോഡൽ ഉണ്ട് അത് വളരെ ജനപ്രിയ മോഡലുകളിൽ ഒന്നാണ് ഡിക്ക് ആൻഡ് കാരി സിസ്റ്റംസ് അപ്രോച്ച് മോഡൽ എന്ന പുസ്തകത്തിന്റെ എട്ടാം പതിപ്പ് അച്ചടിക്കുന്നു പരിശീലന പരിപാടികൾക്കാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച ഭാഷ പ്രത്യേകമായി പരിശീലന പരിപാടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ നിങ്ങൾ ഡിക്ക് കാരി മോഡൽ നോക്കുമ്പോൾ ഇത് ADDIE മോഡലിന്റെ ഒരു പുനർനിർമ്മാണം മാത്രമാണ് എന്നിരുന്നാലും ഡിക്ക് കാരി പുസ്തകത്തിൽ അവർ ADDIE എന്ന വാക്ക് പരാമർശിക്കുന്നില്ല ഇൻസ്ട്രക്ഷണൽ ഡെവലപ്മെന്റ് ലേണിംഗ് സിസ്റ്റം ഒബ്ജെക്റ്റീവ്സ് റിസോഴ്സ് ആക്റ്റിവിറ്റീസ് OAR മോഡൽ സ്മിത്ത് രാഗൻ മോഡൽ മോറിസൺ റോസ് കെമ്പ് മോഡൽ MorrisonRossKemp Model രൂപകൽപ്പന പ്രകാരം മനസിലാക്കുമ്പോൾ ഇത് ഒരു ബാക്വയേഡ് രൂപകൽപ്പന മോഡലാണ് ഏറ്റവും പുതിയതിനെ SAM സക്സസിവ് അപ്പ്രോക്സിമേഷൻ മോഡൽ Successive Approximation Model എന്ന് വിളിക്കുന്നു ചില കാരണങ്ങളാൽ അദ്ദേഹം ADDIE ൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന തലക്കെട്ട് നൽകിയിട്ടുണ്ട് ഇത് ഒരു ശീർഷകത്തിൽ ഉൾപ്പെടുത്തുന്നത് പരിഹാസ്യമാണെന്ന് ഞാൻ കരുതുന്നു കാരണം അദ്ദേഹം അവസാനമായി നിർമ്മിച്ചത് ADDIE മോഡലാണ് ചില ചെറിയ വ്യത്യാസങ്ങളോടെ ഈ മോഡലുകളെല്ലാം ADDIE മോഡലിന്റെ ചെറിയ വകഭേദങ്ങൾ ആയി മാറുന്നു ഓരോ ഘട്ടത്തിലെയും ഉപ പ്രക്രിയകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് വിശദാംശങ്ങൾ നൽകുന്നത് തുടരാൻ കഴിയുന്ന ഒരു പൊതു മോഡലായി ADDIE കണക്കാക്കാം അടുത്ത യൂണിറ്റിൽ ഒരാളുടെ സ്വന്തം കോഴ്സുമായി ബന്ധപ്പെട്ട് അനലൈസ് ഘട്ടത്തിന്റെ പല ഘട്ടങ്ങൾ നമ്മൾ നോക്കും ADDIE മാതൃകയിൽ രൂപകൽപ്പന ചെയ്യുന്ന എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ ഒന്നായിരിക്കും അത് മാനവികത സാമൂഹ്യശാസ്ത്രം ശാസ്ത്രം മുതലായവയിൽ ഉൾപ്പെടാം അല്ലെങ്കിൽ അത് ശുദ്ധമായ എഞ്ചിനീയറിംഗ് കോഴ്സാകാം അനലൈസ് ഘട്ടത്തിൽ ഉൾപ്പെടുന്ന ഉപ പ്രക്രിയകൾ നമ്മൾ പരിശോധിക്കും ഞങ്ങൾ ഒരു കൂട്ടം ഉപ പ്രോസസ്സുകൾ നിർദ്ദേശിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിന്റേതായ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കാനും അവ നിങ്ങൾക്കായി നടപ്പിലാക്കാനും കഴിയും നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി